വൈകാരിക ബുദ്ധി ആരോഗ്യം ക്ഷേമം എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള നമ്മളുടെ മുമ്പത്തെ ചർച്ചയുടെ തുടർച്ചയാണിത് രണ്ടായിരത്തി ആറിൽ പ്രസിദ്ധീകരിച്ച സൈക്കോപത്തോളജി ബിഹേവിയറൽ അസസ്മെന്റിന്റെ വോളിയം നമ്പർ ഇരുപത്തിയേട്ടിൽ ഉൾപ്പടെ മറ്റ് പല പഠനങ്ങളും ശാസ്ത്ര ജേണലുകളിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് സ്ലൈഡ് സമയം 0024 കാണുക അവയിൽ വൈകാരിക ബുദ്ധിയും സാമൂഹിക ഉത്കണ്ഠയും പരസ്പര സഹകരണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ ഗവേഷകർ ശ്രമിച്ചിരുന്നു വൈകാരിക ബുദ്ധി ഒരാളുടെ പരസ്പര സഹകരണത്തെ നല്ലരീതിയിൽ സ്വാധീനിക്കുന്നുവെന്നും ഇത് കാണിക്കുന്നു എന്നിരുന്നാലും സഹകരണ മനോഭാവം ഒരാളുടെ തൃപ്തികരമായ മാനസികാരോഗ്യ നിലയുടെ ഒരു പ്രധാന സൂചകമാണെന്ന് നമ്മൾക്ക് പലപ്പോഴും കാണാൻ കഴിയും ദൈനംദിന ജീവിതത്തിൽ വൈകാരിക ബുദ്ധി എന്ന പുസ്തകത്തിൽ മറ്റ് നിരവധി പഠനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ പാർക്കറും സഹപ്രവർത്തകരും അലക്സിതിമിയയും സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനോ വിവരിക്കാനോ കഴിയാത്ത അവസ്ഥ വൈകാരിക ബുദ്ധിയും തമ്മിലുള്ള പരസ്പരബന്ധം കണ്ടെത്താൻ ശ്രമിച്ചു വൈകാരിക ബുദ്ധി എന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ആശയമാണ് അലക്സിതിമിയ പക്ഷേ ഇത് വൈകാരിക ബുദ്ധിയുടെ വിപരീതമായാണ് ഞാൻ കാണുന്നത് വൈകാരിക ബുദ്ധി എല്ലായ്പ്പോഴും മനുഷ്യന്റെ വികാരങ്ങളുടെ കൃത്യമായ ആവിഷ്കാരത്തിലും അനുഭവത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പക്ഷേ വികാരങ്ങൾ അനുഭവിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള ഒരാളുടെ കഴിവില്ലായ്മയാണ് അലക്സിതിമിയ ശരിയായ തരത്തിലുള്ള വികാരങ്ങൾ അനുഭവിക്കാനും ശരിയായ തരത്തിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കാനും കഴിയാത്ത ഒരു വ്യക്തിയെപ്പോലെ ഇത് ചിലപ്പോൾ ആളുകൾ ഇതിനെ അനുയോജ്യമല്ലാത്ത അനുകരണം എന്ന രീതിയിൽ ലേബൽ ചെയ്യുന്നു കാരണം പ്രത്യേക സാഹചര്യങ്ങളിൽ അനുയോജ്യമായ തരത്തിലുള്ള വികാരം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റം അത്തരം സാഹചര്യങ്ങളിൽ അനുചിതമായിത്തീരുന്നു അതിനാൽ അലക്സിതിമിയയെ അനുചിതമായ അനുകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അലക്സിതിമിയ മാനസിക വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുറഞ്ഞ വൈകാരിക ബുദ്ധി ലഹരി വസ്തുക്കളുടെ ഉപയോഗമായി ബന്ധപ്പെട്ടതാണെന്നും പാർക്കർ കണ്ടെത്തിയിട്ടുണ്ട് കാരണം വൈകാരികമായി സ്ഥിരതയില്ലാത്ത ഒരാൾ പുകവലി മദ്യപാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് വൈകാരിക ബുദ്ധി കുറവുള്ളവർ വിഷാദം ഉത്കണ്ഠ സമ്മർദ്ദം പിരിമുറുക്കം തുടങ്ങി പലതരം മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നതായി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അവന്റെ വിശപ്പില്ലായ്മ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു അല്ലെങ്കിൽ വിശപ്പ് വർദ്ധിക്കും കാരണം പല വിഷാദ രോഗ കേസുകളിലും പഠനങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട് വിഷാദരോഗമുള്ള ആളുകൾക്ക് പലപ്പോഴും അവരുടെ വിശപ്പ് വർദ്ധിക്കുന്നു വിഷാദരോഗം ഉത്കണ്ഠ എന്നിവയെപ്പറ്റി മറ്റ് പല പഠനങ്ങളും നടന്നിട്ടുണ്ട് കുറഞ്ഞ വൈകാരിക ബുദ്ധിയുള്ളവർക്ക് ഉത്കണ്ഠ വിഷാദരോഗം എന്നിവ ഉണ്ടാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇവരിൽ പലരും ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്നതായി നമ്മൾ കണ്ടു കൂടാതെ സത്യത്തിൽ ഈ കണ്ടെത്തലുകളെല്ലാം തന്നെ ക്ലിനിക്കൽ സ്ലൈഡ് എന്നിരുന്നാലും കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി ഇതേപ്പറ്റി ഇന്ത്യൻ പശ്ചാത്തലത്തിലും ധാരാളം ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഞങ്ങളുടെ തന്നെ ചില പഠനങ്ങൾ പല ശാസ്ത്ര മാസികകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നാഷണൽ കൌൺസിൽ ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന ദില്ലിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രധാന പ്രസിദ്ധീകരണത്തിൽ വ്യവസായശാലകളിലെ മാനേജർമാരുടെ പൊതു ആരോഗ്യ നിലയെയും ജീവിത നിലവാരത്തെയും വൈകാരിക സാക്ഷരത എങ്ങനെ ഗുണപരമായി സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരുന്നു ഈ പഠനം ശാസ്ത്ര സമൂഹവും വ്യാവസായികശാലകളിലെ മാനേജർമാരും വളരെ വ്യാപകമായി അംഗീകരിച്ചു ഇവരിൽ പലരും പരിശീലിലനം നേടുന്ന മാനേജർമാരാണ് ഈ പഠനം അവരുടെ പരിശീലന ക്ളാസുകളിൽ വളരെ ഗുണപരമായി ഉപയോഗിക്കപ്പെട്ടു അത് അനുസരിച്ച് കൃത്യമായ പരിശീലനത്തിലൂടെ വൈകാരിക സാക്ഷരത മേഖല മെച്ചപ്പെടുത്തിയാൽ അത് മാനേജർമാരുടെ മൊത്തത്തിലുള്ള ആരോഗ്യനില മെച്ചപ്പെടുത്തും അത് അവരുടെ തൊഴിൽപരമായ പ്രകടനത്തെയും മുഴുവൻ ജീവിത നിലവാരത്തെയും ഗുണപരമായി സ്വാധീനിക്കുന്നു സമ്മർദ്ദകരമായ ജീവിത സംഭവങ്ങളും പൊതുവായ ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെ വൈകാരിക ബുദ്ധി മിതപ്പെടുത്തുന്നതായി ഞങ്ങൾ കണ്ടെത്തി എന്റെ പിഎച്ച്ഡി ഗവേഷണ വിദ്യാർത്ഥി പൊതു സ്വകാര്യ മേഖലകളിലെ വിപുലമായ ഡാറ്റകൾ ശേഖരിച്ച് നടത്തിയ ഒരു പ്രബന്ധം അദ്ദേഹം സാംബാൽപൂർ സർവകലാശാലയിൽ സമർപ്പിച്ചിരുന്നു വൈകാരിക ബുദ്ധി സമ്മർദ്ദം ആരോഗ്യം എന്നിവയെ പറ്റിയാണ് അദ്ദേഹംപഠിച്ചത് പൊതുമേഖലയും സ്വകാര്യമേഖലയും തമ്മിലുള്ള താരതമ്യ വിശകലനം ഉയർന്ന തലത്തിലുള്ള വൈകാരിക ബുദ്ധി ഉള്ള ആളുകൾക്ക് കുറഞ്ഞ സമ്മർദ്ദവും ഉയർന്ന ആരോഗ്യശേഷിയുo അനുഭവപ്പെടും എന്ന് അദ്ദേഹം കണ്ടെത്തി വിഷാദരോഗികളായ രോഗികളുടെ ചികിത്സയിൽ വൈകാരിക ബുദ്ധിക്ക് കൃത്യമായ സ്ഥാനം ഉണ്ടെന്ന് ഞങ്ങൾ ഇതേപോലെയുള്ള മറ്റ് പഠനങ്ങളിൽ കണ്ടെത്തി വിഷാദരോഗികളായ രോഗികളുടെ വൈകാരിക ബുദ്ധി നിങ്ങൾക്ക് ഉണർത്താൻ കഴിഞ്ഞാൽ അവർ ആ അവസ്ഥയിൽ നിന്ന് പുറത്തുവരും അതിനാൽ ഈ സെമിനാറിൽ ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് വൈകാരിക ബുദ്ധിക്ക് വിഷാദരോഗത്തിന് പരിഹാരമായി പ്രവർത്തിക്കാൻ കഴിയും എന്നതാണ് എന്നാൽ ഈ രോഗം ഏറെ പഴക്കം ചെന്നതോ സ്ഥായിയായി ഉള്ളവരിലോ ഈ ചിക്ലിത്സാ രീതി അത്ര നന്നായി പ്രവർത്തിക്കില്ല അതെപോലെ വൈകാരിക ബുദ്ധി ORS ആയി ബന്ധമില്ല എന്ന് കാണിക്കുന്ന മറ്റൊരു പഠനമുണ്ട് ORS എന്നത് ഓർഗനൈസേഷണൽ റോൾ സ്ട്രെസിനെ തൊഴിലുമായി ബന്ധപ്പെട്ട മാനസിക പിരിമുറുക്കം സൂചിപ്പിക്കുന്നു അപ്പോൾ ORS അതായത് ഓർഗനൈസേഷണൽ റോൾ സ്ട്രെസുമായി വൈകാരിക ബുദ്ധിക്ക് വിപരീത ബന്ധമാണ് ഉള്ളത് ഉദയ് പരീഖ് ആവിഷ്കരിച്ച ഒരു ആശയമാണിത് തൊഴിൽ മേഖലകളിലെ വിവിധ ജോലികൾ എന്ന ആശയത്തെക്കുറിച്ച് അദ്ദേഹം വളരെ മികച്ച ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ പത്ത് തരം ഓർഗനൈസേഷണൽ റോൾ സ്ട്രെസ്സിനെ പറ്റി അദ്ദേഹംപറയുന്നുണ്ട് അതിൽ മൂന്നെണ്ണം അവനവനുമായി ബന്ധപ്പെട്ടതും നാലെണ്ണം മറ്റ് പല കാരണങ്ങളുമായി ബന്ധപെട്ടതുമാണ് അതായത് വിവിധ പ്രതീക്ഷകൾ എങ്ങനെ ബാധിക്കുന്നു എന്നത് പോലെ ഉള്ളവ നിങ്ങളുടെ കുടുംബം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ചങ്ങാതിമാർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടു തന്നെ ഈ ഒന്നിലധികം കഥാപാത്രങ്ങളിൽ നിന്ന് ഒരു മാനേജറോ ഒരു എക്സിക്യൂട്ടീവോ വിവിധതരം റോൾ സ്ട്രെസ് എങ്ങനെ അനുഭവിക്കുന്നു അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരവും പ്രൊഫഷണൽപരവുമായ പ്രകടനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു ഇൻഡസ്ട്രിയൽ സൈക്യാട്രി പ്രസിദ്ധീകരിച്ച മറ്റൊരു പഠനമാണിത് ഓർഗനൈസേഷണൽ റോൾ സ്ട്രെസ്സും വൈകാരിക ബുദ്ധിയുമായി വിപരീത ബന്ധമാണ് ഉള്ളതെന്ന് റേയും മുഖർജിയും കണ്ടെത്തി സമാനമായ കണ്ടെത്തലുകൾ അടുത്തിടെ ഞങ്ങളുടെ പഠനങ്ങളിലും ഉണ്ടായി ഈ കാര്യങ്ങൾ ഇന്ത്യൻ ജേർണൽ ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലൊപ്മെന്റുമായി ആശയവിനിമയം നടത്തി ഒരുപക്ഷേ അടുത്ത ലക്കത്തിൽ ഇത് പ്രസിദ്ധീകരിക്കും 2015ൽ ഇന്റർനാഷണൽ ജേണലിൽ ഓഫ് സ്ട്രെസ് മാനേജ്മെന്റിൽ പ്രസിദ്ധീകരിച്ച അജയ് ജെയിനിന്റെയും അരവിന്ദ് സിൻഹയുടെയും ഒരു സുപ്രധാനമായ പഠനമുണ്ട് വ്യവസായശാലകളിലെ മാനേജർമാർക്കിടയിൽ വൈകാരിക ബുദ്ധി പൊതു ആരോഗ്യത്തെ എങ്ങനെ സഹായിക്കുന്നെന്ന് കണ്ടെത്താൻ ജെയിനും സിഹ്നയും ശ്രമിച്ചു വിശ്വാസം ഉറപ്പ് വൈകാരിക ബുദ്ധിയുടെ പോസിറ്റീവ് മാനങ്ങൾ എന്നിവ ഓർഗനൈസേഷണൽ സപ്പോർട്ട് ഉപയോഗിച്ച് പ്രവചിക്കാം എന്ന് അവർ കണ്ടെത്തി ഇവരിൽ പ്രൊഫസർ ജെയിൻ ഇപ്പോൾ ഗുഡ്ഗാവിലെ എംഡിഐയിൽ ജോലി ചെയ്യുകയാണ് ബാരന്റെ EQ സ്കെയിലുകൾ പ്രയോഗിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഈ സ്കെയിലിൽ പ്രധാനമായും മൂന്ന്ഘടനകൾ ഉണ്ടെന്ന് കണ്ടെത്തി വിശ്വാസം ഉറപ്പ് പോസിറ്റീവ് തിരിച്ചറിവ് ഇവ മറ്റ് പത്തിനഞ്ചു ഘടനകളെക്കാൾ വൈകാരിക ബുദ്ധി അളക്കാൻ കൂടുതലായി ഉപയോഗിക്കാം എന്ന് കണ്ടെത്തി ഈ മൂന്ന് അളവുകൾ ഒരാളുടെ പൊതു ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ വൈകാരിക ബുദ്ധി സാംസ്കാരിക സഹകരണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പഠനം കൂടി ഉണ്ട് അതുകൊണ്ടാണ് വ്യത്യസ്ത സാംസ്കാരിക സന്ദർഭങ്ങളുമായി പൊരുത്തപ്പെടുന്നതിൽ വൈകാരിക ബുദ്ധി നമ്മുടെ സ്വഭാവത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ സംസ്കാരവും വൈകാരിക ബുദ്ധിയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനാൽ സയ്യിദ് അമീർ ജസേരി എസ് കിരൺ കുമാർ S Kiran Kumar എന്നിവർ മനഃശാസ്ത്ര പഠനത്തിൽ അവതരിപ്പിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത വളരെ പ്രധാനപ്പെട്ട ലേഖനമാണിത് മൈസൂർ സർവകലാശാലയിലാണ് പ്രൊഫസർ കിരൺ കുമാർ എന്ന് ഞാൻ കരുതുന്നു അതേപോലെ സിംഗപ്പൂർ സർവകലാശാലയിലെ ഒരുകൂട്ടം മനശാസ്ത്രജ്ഞരുണ്ട് എലിസബത്ത് ജെ ഓസ്റ്റിനും സഹപ്രവർത്തകരും 'പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജുവൽ ഡിഫറൻസ്' എന്ന പ്രസിദ്ധീകരണത്തിൽ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചു ഒരാളുടെ വ്യക്തിത്വം സൌഖ്യം ആരോഗ്യം എന്നിവ അയാളുടെ വൈകാരിക ബുദ്ധിയുടെ സ്വഭാവാവുമായി ബന്ധിപ്പിക്കാൻ അവർ ശ്രമിച്ചു അങ്ങനെ ഒരാളുടെ വ്യക്തിത്വ സവിശേഷതകളുമായി ബന്ധപ്പെട്ട മറ്റൊരു ആശയം ഉണ്ടായി അതിൽ ഒരു ഗുണപരമായ ബന്ധം ഉണ്ടെന്ന് അവർ കണ്ടെത്തി വൈകാരിക ബുദ്ധി അലക്സിതിമിയ മദ്യപാനം എന്നിവയുമായി പ്രതികൂലമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ജീവിത സംതൃപ്തി സാമൂഹിക ബന്ധങ്ങളുടെ വലുപ്പം ജീവിത ഗുണനിലവാരം എന്നിവയുമായി ക്രിയാത്മകമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും കണ്ടെത്തി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വൈകാരിക ബുദ്ധി ഉയർന്ന ആളുകളിൽ അലക്സിതിമിയ ബാധിക്കാനുള്ള സാധ്യത കുറവാണ് അവർ അമിതമായി മദ്യം കഴിക്കാനുള്ള സാധ്യതയും കുറവാണ് മറുവശത്ത് വൈകാരിക ബുദ്ധി ഉയർന്ന ആളുകൾ ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്നും അവർ കണ്ടെത്തി അവർക്ക് മികച്ച സാമൂഹിക ബന്ധങ്ങളും മികച്ച ജീവിത നിലവാരവുമുണ്ട് എന്നിരുന്നാലും മറ്റ് ചില പഠനങ്ങൾ കാണിക്കുന്നത് ഉയർന്ന വൈകാരിക ബുദ്ധികൂടുതൽ ഉള്ളവർക്ക് മാനസിക ക്ലേശങ്ങൾ കുറവാണു എന്നാണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വിശദമായി ചർച്ച ചെയ്യുന്നത് മനുഷ്യന്റെ ആരോഗ്യം സന്തോഷം സംതൃപ്തി എന്നിവ നിലനിർത്തുന്നതിൽ വൈകാരിക ബുദ്ധി എങ്ങനെ നിർണായക ഘടകമാകും വൈകാരിക ബുദ്ധി ഉയർന്ന ആളുകളുടെ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടാതെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിലും അല്ലെങ്കിൽ സമ്മർദ്ദകരമായ സാഹചര്യങ്ങളെ നേരിടുന്നതിലും അവർ വിജയിക്കും 2007ൽ ക്യാമ്പ്ബെല്ലും എൻടോബെഡ്സെയും നടത്തിയ ഒരു പഠനം അപ്ലൈഡ് സൈക്കോളജിയുടെ ഒരു ഇലക്ട്രോണിക് പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ഉയർന്ന വൈകാരിക ബുദ്ധിയും മാനസിക ക്ലേശവും തമ്മിൽ നെഗറ്റീവ് ബന്ധമാണ് എന്ന് അവർ കണ്ടെത്തി വൈകാരിക ബുദ്ധിയെ ദീർഘകാല മാനസികാരോഗ്യത്തിൻറെ വികാസത്തിനായി ഉപയോഗിച്ചാൽ എന്താണ് അനുമാനിക്കേണ്ടത് ആളുകളിൽ വൈകാരിക ബുദ്ധിയുടെ ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെ നിർണ്ണയിക്കുന്നുവോ അത്തരത്തിൽ മാത്രമേ അത് പരിപോഷിപ്പിക്കാനും വൈകാരികമായി ബന്ധപ്പെട്ട രോഗങ്ങളായ ഉത്കണ്ഠ പിരിമുറുക്കം സമ്മർദ്ദം മുതലായവ തടയാനും കഴിയു ഒന്നാമതായി അത് ആരംഭിക്കേണ്ട ആളുകൾ അത് അറിഞ്ഞിരിക്കണം രോഗനിർണയ പ്രക്രി ഇത് എങ്ങേനെയാണ് ലളിതമായി എന്നൊക്കെ രോഗനിർണയത്തിന് വിലയിരുത്തലുകൾ ആവശ്യമുണ്ട് ആ വിലയിരുത്തലുകളെ നമുക്ക് എക്സ് റേ സിടി സ്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിളിക്കാം അപ്പോൾ നമുക്ക് ഒരാളുടെ വൈകാരിക ബുദ്ധിയുടെ സിറ്റി സ്കാൻ എടുക്കാം അല്ലെങ്കിൽ എക്സ്റേ എടുക്കാം ഒരാളുടെ വൈകാരിക ബുദ്ധിയുടെ എക്സ് റേ എങ്ങനെയാണു നമുക്ക്ക് എടുക്കാനാവുക ലളിതമായി നമുക്ക് ഒരു വൈകാരിക ബുദ്ധി ടെസ്റ്റ് എടുക്കാം ശാസ്ത്ര ജേണലിൽ ഇത് പരിശോധിക്കാൻ ആവശ്യമായ ധാരാളം അളവുകോലുകൾ കാണും ഈ വാണിജ്യ വിപണിയിൽ ലഭ്യമായ ഏറ്റവും ലളിതമായ സ്കെയിലുകളിലൊന്നാണ് വോംഗ് ആൻഡ് ലോ ഇമോഷണൽ ഇന്റലിജൻസ് സ്കെയിൽ Wong and Law Emotional Intelligence Scale സ്ലൈഡ് സമയം 1331 കാണുക ഇത് വളരെ ലളിതമായ ഒരു ഗവേഷണമാണ് എന്നാൽ ക്ലിനിക്കൽ സജ്ജീകരണങ്ങളിൽ ഇത് ഒരിക്കലും പരീക്ഷിച്ചിട്ടില്ല എന്നിരുന്നാലും നിങ്ങളുടെ ഓർഗനൈസേഷണൽ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ആളുകളെ രോഗികളായി കാണരുത് പക്ഷെ നിങ്ങൾ അവരുടെ വൈകാരിക ബുദ്ധിയുടെ നിലവാരം അളക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനാൽ ഈ സ്കെയിൽ ഏത് സമയത്തും ഒരാൾക്ക് ഉപയോഗിക്കാം ഇതിനെ വോംഗ് എന്നും ലോ ഇമോഷണൽ ഇന്റലിജൻസ് സ്കെയിൽ എന്ന് വിളിക്കുന്നു ഇതിൽ പതിനാറ് ഇനങ്ങൾ ഉൾപ്പെടുന്നു വികാരങ്ങളുടെ കാഴ്ചപാടും വിലയിരുത്തലും വികാരങ്ങളുടെ നിയന്ത്രണങ്ങൾ വികാരങ്ങളുടെ നിർവ്വഹണം മുതലായ വൈകാരിക ബുദ്ധിയുടെ നാല് പ്രധാന തീരുമാനങ്ങൾ ഇത് അളക്കുന്നു ഒരു ഉദ്ധാഹരണത്തിൽ ആരംഭിക്കാം എന്തുകൊണ്ടാണ് എനിക്ക് മിക്കപ്പോഴും ഒരു പ്രത്യേക വികാരം തോനുന്നു എന്നത് എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട് എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് വൈകാരിക ബുദ്ധിയുടെ ഏത് വശമാണ് ഇത് ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വൈകാരിക ആത്മബോധത്തെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് നല്ല ചില വികാരങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് വ്യകതമായി അറിയാമെന്നാണ് ഇതിനർത്ഥം ഉദാഹരണത്തിന് എപ്പോഴും പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയുണ്ട് എന്ന് കരുതുക ആ വ്യക്തിയോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാം ഇതിനെ ഒരാളുടെ വികാരങ്ങളുടെ കൃത്യമായ വിലയിരുത്തൽ എന്ന് വിളിക്കുന്നു എന്റെ സ്വന്തം വികാരങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് ചില ആളുകൾ പറയുന്നത് കേൾക്കാം എന്താണെന്ന് അറിയില്ല എനിക്ക് എന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അത് കൂടി കൂടി കൂടി പോയ്കൊണ്ടേ ഇരിക്കുന്നു എന്ന് നിങ്ങളുടെ വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെക്കുറിച്ചുള്ള വൈകാരിക അവബോധം നിങ്ങൾക്കില്ലെന്നാണ് ഇതിനർത്ഥം ആരെങ്കിലും എന്റെ മുന്നിൽ നിന്ന് കരയുകയോ ചിരിക്കുകയോ എന്താണെങ്കിലും ആയിക്കോട്ടെ എനിക്ക് അറിയാം എന്താണ് എന്റെ വികാരം എന്ന് വൈകാരികമായി മരവിച്ച ആളുകൾ ഉണ്ട് അവർ ഒരുതരത്തിലുള്ള വികാരവും കാട്ടുന്നില്ല നമ്മൾ അവരോട് ഹൌ ആർ യു എന്ന് ചോദിച്ചാൽ അവർ ഓകെ എന്ന് പറയും ഓകെ എന്ന് ഒരു വികാരം ഉണ്ടോ സുഖമാണ് സുഖമല്ല ഈ രണ്ടു വികാരങ്ങളാണ് ആ ചോദ്യത്തിന് ഉത്തരമാകേണ്ടത് വികാരങ്ങളെ ലേബൽ ചെയ്യുന്നത് അങ്ങനെയാണ് എന്റെ ചങ്ങാതിമാരുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അവരുടെ വികാരങ്ങൾ മനസിലാക്കാൻ കഴിയും കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ വൈകാരിക ബുദ്ധിയിൽ നിങ്ങൾ പ്രാവീണ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ വികാരങ്ങളെ മനസിലാക്കാൻ നിങ്ങൾക്ക് കഴിയും അവന്റെ വൈകാരിക നില അവന്റെ വൈകാരിക ആവശ്യം അവൻ സമ്മർദ്ദത്തിലാണോ അവൻ സന്തോഷവാനാണോ അവൻ ജീവിതത്തിൽ സംതൃപ്തനാണോ ഏതുതരം വികാരമാണ് ഇപ്പോൾ അവൻ പ്രതീക്ഷിക്കുന്നത് തുടങ്ങിയവ മറ്റുള്ളവരുടെ വികാരങ്ങളുടെ നല്ല നിരീക്ഷകനാണ് ഞാൻ വൈകാരിക ബുദ്ധിയുള്ള ആളുകൾക്ക് അത്ഭുതകരമായ ചില സവിശേഷതകൾ ഉണ്ട് നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളോട് മാന്യമായി പെരുമാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അവർ അവരുടെ ദുരിതം നിങ്ങളോട് പ്രകടിപ്പിക്കുകയില്ല കാരണം അവർ നിങ്ങളോട് അവരുടെ വിഷമം പ്രകടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സമ്മർദ്ദമുണ്ടാകുമെന്ന് അവർക്കറിയാം അവർ നിങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരു അഭ്യുദയകാംക്ഷിയെന്ന നിലയിൽ അവരുടെ ഒരു നല്ല സുഹൃത്തിനെന്ന നിലയിൽ നിങ്ങൾക്ക് അവരുടെ ഉള്ളിലെ വൈകാരിക അറകളിൽ പ്രവേശിച്ച് അവരുടെ പ്രശനം എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ ഒരു ആത്മ മിത്രം എന്ന നിലയിൽ അവർക്ക് അത് വലിയസഹായമായിരിക്കും ഒരാളുടെ ദുരിതത്തിൽ നിന്ന് പുറത്തുവരാൻ അവരെ സഹായിക്കുന്നതിനായി ഞങ്ങൾ വിദ്യാർത്ഥികളെ കൃത്യമായി പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഒരു സംഭവം പറയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാമ്പസിൽ ഒരു ആത്മഹത്യ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഞങ്ങൾ സ്ഥിതിഗതികൾ പരിശോധിച്ചു ഞങ്ങൾ അയൽക്കാരന്റെ മുറിയിൽ അന്വേഷിച്ചു തൊട്ടടുത്തുള്ള ആ പയ്യനെ നിങ്ങൾക്കറിയാമോ ഇല്ല എന്ന് അയാൾ പറഞ്ഞു ആരാണ് അവിടെ താമസിക്കുന്നതെന്ന് അയാൾക്കറിയില്ല ആ പാവം കുട്ടി കഴിഞ്ഞ 3 വർഷമായി ആ മുറിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്ത അയൽക്കാരുമായി നിങ്ങൾ സാമൂഹികമായും വൈകാരികമായും ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് ഇതിന്റെ അർത്ഥം ഇതിനർത്ഥം നിങ്ങൾ മറ്റ് ആളുകളുടെ വൈകാരിക സാഹചര്യങ്ങളെക്കുറിച്ചോ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല കൂടാതെ അവരുടെ വികാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയില്ലെന്നും ആണ് ഞാൻ എല്ലായ്പ്പോഴും കൃത്യമായ ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ടു പോവുകയും അത് നേടാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് ഒരാൾ വൈകാരിക ബുദ്ധിയുള്ള ആളാണ് എന്നതിന്റെ അടയാളം ഞാൻ എപ്പോഴും സ്വായം പറയും ഞാൻ ഒരു കഴിവുള്ള വ്യക്തിയാണെന്ന് കാരണം എനിക്ക് എന്നെത്തന്നെ വിലയിരുത്താൻ കഴിയുമെന്ന് എനിക്കറിയാം എനിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും കഴിയും അതുകൊണ്ടാണ് ഞാൻ കഴിവുള്ളവനാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു സ്വയം പ്രചോദിത വ്യക്തിയാണ് വികാരവും പ്രചോദനവും ഒരേ നാണയത്തിന്റെ രണ്ടു വശമാണ് നിങ്ങൾ വൈകാരികമായി ഓഫാണെങ്കിൽ നിങ്ങളുടെ പ്രചോദനം കുറയും നിങ്ങളുടെ വികാരം ഉയർന്നതാണെങ്കിൽ നിങ്ങളുടെ പ്രചോദനവും ഉയരും ആളുകൾ വൈകാരികമായി സൌഖ്യം ഉള്ളവർ സ്വയം പ്രചോദിതരാണ് പല കാര്യങ്ങളിലും എന്റെ പരമാവധി ശ്രമിക്കാൻ ഞാൻ എപ്പോഴും എന്നെത്തന്നെ പ്രോത്സാഹിപ്പിക്കും വൈകാരികമായി ശാന്തരായ ആളുകൾ സ്വയം പ്രചോദനങ്ങൾ സൃഷ്ടിക്കും ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ കഴുയും എപ്പോഴും എനിക്ക് വേഗത്തിൽ ശാന്തനാകാനാകും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നതിന്റെ മറ്റൊരു സൂചന കൂടിയാണിത് നിങ്ങളുടെ സ്വന്തം വികാരങ്ങളുടെ ചുമതല നിങ്ങൾക്കാണ് നിങ്ങളുടെ കോപത്തെ പൂർണ്ണമായി നിർത്താൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഉള്ളിൽ നിന്ന് സ്വയം ഊർജ്ജസ്വലമാക്കാനും കഴിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രകടനം നടത്താൻ ഏതെങ്കിലും ഉത്തേജനം ആവശ്യമില്ല എന്റെ വികാരങ്ങളിൽ എനിക്ക് നല്ല നിയന്ത്രണമുണ്ട് ഇത് വൈകാരിക പക്വതയുടെ അടയാളമാണ് ആവശ്യമുള്ളപ്പോഴെല്ലാം നമ്മുടെ കോപത്തിന് ഒരു വിരാമമിടണമെന്ന് എല്ലാവരും പറയുന്നു അല്ലാത്തപക്ഷം അത് ഉയർന്ന് ആളുകൾക്ക് ഇടയിൽ സംഘർഷം സൃഷ്ടിക്കും ഇത് നിങ്ങളുടെ വൈകാരിക ഇന്റലിജൻസ് നിലയുടെ ഒരു സൂചനയെ പ്രതീകപ്പെടുത്താൻ കഴിയുന്ന ഒരു ചെറിയ അളവാണ് എന്നിരുന്നാലും ക്ലിനിക്കൽ വിലയിരുത്തലിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്യുന്നത് ബാരൻ ഇമോഷണൽ ക്വോഷ്യണ്ട് ഇൻവെന്ററി ബാരന്റെ ഇക്യു ഐ എന്നാൽ ഇതിന് കൂടുതൽ സമയവും പരിശ്രമവും വൈദഗ്ധ്യവും ആവശ്യമാണ് അതിനാൽ ഒരു വ്യക്തിക്ക് ഈ റെസ്റ്റിനെ നിയന്ത്രിക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും നല്ല ധാരണ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് സമ്പൂർണ്ണ ആരോഗ്യ ക്ലിനിക്കൽ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ഒരാളുടെ വൈകാരിക ബുദ്ധിയുടെ വ്യക്തമായ ചിത്രം ഇത് നൽകുന്നത് അതിനാൽ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളും ഇവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വൈകാരിക ബുദ്ധിയുടെ പ്രധാനപ്പെട്ട ചില മേഖലകളാണിത് ഒരാൾ സ്വയം വൈകാരിക അവബോധത്തിന്റെ അവസ്ഥ വിലയിരുത്തുന്നത് പോലെ മറ്റുള്ളവരുടെ വൈകാരിക അവബോധം വൈകാരിക യുക്തി എന്നിവ മനസിലാക്കേണ്ടത്ത് വളരെ പ്രധാനമാണ് നിങ്ങൾ ആരെയെങ്കിലും വെറുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം മിക്കപ്പോഴും നാം മുൻവിധിയെക്കുറിച്ചും സ്റ്റീരിയോടൈപ്പുകളെക്കുറിച്ചും സംസാരിക്കുന്നു ഇതിന്റെ ഫലം എന്താണ് ഒന്നുമില്ല വികാരം മാത്രം വൈകാരിക പക്ഷപാതം മുൻവിധി എന്നത് വിവേചനവുമായി ബന്ധപ്പെട്ട ഒരു നെഗറ്റീവ് മനോഭാവമാണ് എന്താണ് വിവേചനം ഒരു കാരണവുമില്ലാതെ ആരെയെങ്കിലും വെറുക്കുന്നതാണ് വിവേചനം നിങ്ങൾ ഒരു ഹിന്ദുവിനോട് ചോദിച്ചു നോക്കു എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മുസ്ലീമിനെ വെറുക്കുന്നത് അവർ പറയും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അവരെ വെറുക്കുന്നു നമ്മുടെ ഗ്രാഹ്യം വൈകാരികമായി ലോഡുചെയ്തതാണ് നമുക്ക് അത് വിശദീകരിക്കാൻ കഴിയില്ല നിങ്ങൾ ഒരു മുസ്ലിമിനോടും ഇതേ ചോദ്യം ചോദിക്കു അവർ പറയും ഞാൻ ഹിന്ദുവിനെ വെറുക്കുന്നു കാരണം എനിക്ക് അവരെ ഇഷ്ടമല്ല അത്രയേയുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെഇഷ്ടമല്ലാത്തത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും എന്റെ മാതാപിതാക്കൾക്ക് അവരെ ഇഷ്ടമല്ലാത്തതിനാലാണ് എന്ന് നമ്മളുടെ പെരുമാറ്റത്തിലും വിശ്വാസത്തിലും മനോവികസനത്തിലും വിദ്യാഭ്യാസവും സാമൂഹികവൽക്കരണവും വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് പറയപെടുന്നുണ്ട് അതുപോലെ വികാരങ്ങളുടെ നിയന്ത്രണം അല്ലെങ്കിൽ വികാരങ്ങളുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ വൈകാരിക സ്വയം മാനേജുമെന്റ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വൈകാരിക മാനേജുമെന്റ് എന്നിവയിൽ വൈകാരിക യുക്തി വളരെ പ്രധാനമാണ് നിങ്ങളുടെ സ്വന്തം വികാരങ്ങളുടെ ചുമതല നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നതാണ് വൈകാരിക സ്വയം മാനേജുമെന്റ് നിങ്ങളുടെ കോപം എങ്ങനെ നിയന്ത്രിക്കും നിങ്ങളുടെ ആവേശം എങ്ങനെ നിയന്ത്രിക്കും നിങ്ങൾ കോപത്തിൽ നിന്നോ പിരിമുറുക്കത്തിൽ നിന്നോ സമ്മർദ്ദത്തിൽ നിന്നോ പുറത്തുവരേണ്ടത് മാത്രമല്ല അത്യാവശ്യം സന്തോഷം കൂടി മണ്ടത്തരങ്ങൾ സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾ ഒഴിവാക്കണം ആരെങ്കിലും വളരെ സന്തുഷ്ടനാകുകയും അവർ ഒരു പാർട്ടിക്ക് പോകുകയും അമിതമായി മദ്യപിച്ചതിന് ശേഷം മറ്റുള്ളവരുമായി വഴക്കിട്ട് ചെയ്യുകയും എല്ലാ അസംബന്ധങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്കിടയിലാണ് ഞങ്ങൾ നിരവധി തവണ കണ്ടിട്ടുള്ളത് പക്വതയുള്ള മുതിർന്നവരും ഇത്തരത്തിൽ പെരുമാറും പരസ്പരം പോരടിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു കാരണം ഒന്നും തന്നെ ഇല്ലാതെ അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കാഷ്വൽ ആണ് അപ്പോൾ നിങ്ങൾ ഒരു മോശം പെരുമാറ്റത്തിൽ ചെന്ന് കലാശിച്ചേക്കാം സംഘടനാ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട അഞ്ച് കഴിവുകളെ കുറിച്ച് ഗോൾഡ്മാൻ പറയുന്നു സ്വയം അവബോധം സ്വയം നിയന്ത്രണം പ്രചോദനം സമാനുഭാവം സാമൂഹിക കഴിവുകൾ എന്നിവയാണ് അവ കാരണം നിങ്ങളുടെ സംഘമനോഭാവം നിലനിർത്തുന്നതിനും ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനും ആളുകളെ അവരുടെ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ സഹായിക്കനും ഇവ പ്രധാനമാണ് വൈകാരിക ബുദ്ധി എങ്ങനെ അളക്കാം ബാരന്റെ ഇക്യു bar on's EQ മേയർ സലോവി ഇമോഷണൽ ഇന്റലിജൻസ് സ്കെയിൽ ഇക്യു മാപ്പിംഗ് കൂപ്പർ ആൻഡ് സവാഫ് പാമർ തുടങ്ങിയ നിരവധി ടെസ്റ്റുകളും വൈകാരിക ഇന്റലിജൻസ് ടെസ്റ്റാണ് ജീവനക്കാരുടെ വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എച്ച്ആർ പ്രൊഫഷണലുകളും ബിസിനസ്സ് നേതാക്കളുമുള്ള ഒരു ഗ്രൂപ്പിൽ പാമറും സഹപ്രവർത്തകരും ശ്രദ്ധ കേന്ദ്രീകരിച്ചു വൈകാരിക ബുദ്ധിയുടെ ഒരു ലളിതമായ വിലയിരുത്തൽ നിങ്ങൾ തയ്യാറാക്കിയാൽ അത് അ വ്യക്തിയുടെ വൈകാരിക ബുദ്ധിയുടെ വ്യത്യസ്ത പ്രൊഫൈലുകളിൽ അവരുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു സൂചിക നൽകും എന്നവർ കണ്ടെത്തി സങ്കീർണ്ണമായ ഒരു മോഡലിനെക്കാൾ ലളിതമായതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് വൈകാരിക ബുദ്ധിയുടെ ഒരു പരിശോധന പൂർത്തിയാക്കാൻ കഴിയും നമ്മൾ അടിസ്ഥാനപരമായി ഇവിടെ സംസാരിക്കുന്നത് ഈ വൈകാരിക ഇന്റലിജൻസ് പട്ടികയെക്കുറിച്ചാണ് ഇത് ഓൺലൈനിലും ലഭ്യമാണ് എന്നാൽ ഇത് നിങ്ങളുടെ ഓർഗനൈസേഷനുകൾക്കായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് വാങ്ങാം ഔദ്യോഗിക സന്ദർഭത്തിൽ വൈകാരിക ബുദ്ധി വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് ബിസിനസ്സിലെ വിജയത്തിനായി ആളുകൾ വൈകാരിക ബുദ്ധിയെ ആശ്രയിക്കാൻ തുടങ്ങി അതിൽ ഏറ്റവും പ്രധാനം ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാനും അവരെ പ്രചോദിപ്പിക്കാനും ഉള്ള കഴിവാണ് കൂടാതെ ഉൽപാദനപരമായ ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ വിശ്വാസവും ഒരാളുടെ മാനസികാരോഗ്യം പുനസ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗ്ഗം വിശ്വാസവും ആരോഗ്യകരമായ പരസ്പര ബന്ധവും വളർത്തിയെടുക്കുക എന്നതാണ് സംഘടനാ കാര്യങ്ങളിൽ നമുക്ക് ഇത് കാണാൻ കഴിയും നിങ്ങൾക്ക് വിശ്വസ്തമായ ആരോഗ്യകരമായ ബന്ധവുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഘടനാ പ്രശ്നങ്ങളെ നന്നായി നേരിടാൻ കഴിയും കാരണം നിങ്ങൾക്ക് ശക്തമായ സാമൂഹിക പിന്തുണ ലഭിക്കും അത് നിങ്ങൾക്ക് ഊർജ്ജസ്വലമായ ശക്തി സൃഷ്ടിക്കും സമ്മർദ്ദ അന്തരീക്ഷത്തിൽ പ്രകടനം നടത്താനുള്ള നിങ്ങളുടെ ഊർജ്ജസ്വലതയുടെ സൂചനയാണിത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും സമ്മർദ്ദത്തിൽ തഴച്ചുവളരാനുള്ള കഴിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമുള്ള വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ഓർഗനൈസേഷന് കനത്ത നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ടാറ്റ സൈറസ് മിസ്ട്രിയെ നിയമിച്ചപ്പോലെ നിങ്ങളുടെ ഓർഗനൈസേഷനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്കും നിയമിക്കാൻ കഴിയും അത് ഒരു കൃത്യമായ ഉദാഹരണമാണ് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ മാത്രം ആശ്രയിക്കാൻ കഴിയുമോ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം ഇത് ധീരമായ തീരുമാനമായിരുന്നില്ലേ ആദ്യമായി ടാറ്റ കുടുംബത്തിന് പുറത്തുനിന്നും ഒരാൾ ടാറ്റ ബിസിനസിന്റെ ചുമതല ഏറ്റെടുക്കുന്നു അതിനാൽ അതിനെ നമ്മൾ ശക്തമായ തീരുമാനം അല്ലെങ്കിൽ ധീരമായ തീരുമാനം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ശക്തി ഈ അഞ്ച് കഴിവുകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്ന് മറ്റുള്ളത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അത് ഒരാളുടെ നിലനിൽപ്പിനും വിജയത്തിനും ശക്തമായ അടിത്തറ സൃഷ്ടിക്കാൻ കഴിയും ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ സെഷനുകൾ അവസാനിപ്പിക്കാം നമുക്ക് തിരികെ വരുമ്പോൾ ഇമോഷണൽ ഇന്റലിജൻസിന്റെ മറ്റ് വശങ്ങളെ പറ്റി പരിശോധിക്കാം